Financial accounting ൻറെ അടുത്ത സെഷനുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അക്കൌണ്ടിംഗ് എന്താണെന്ന് നമ്മൾ ഇതിനകം ചർച്ച ചെയ്തു തുടർന്ന് നമ്മൾ financial statements ആരംഭിച്ചു അവസാനത്തെ സെഷനിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ് മെൻറ് ലെ പ്രധാനപ്പെട്ട ബാലൻസ് ഷീറ്റ് നെ പറ്റി ചർച്ച ചെയ്തു കമ്പനി Act ഷെഡ്യൂൾ III അനുസരിച്ച് ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് പിന്നെഷെഡ്യൂൾ 3 അനുസരിച്ചുള്ള വിശദാംശങ്ങളും ചർച്ച ചെയ്തു അതിനാൽ ബാലൻസ്ഷീറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എന്നോട് പറയാൻ ആകുമോ ഒരു പ്രത്യേക ദിവസത്തെ entity ടെ സാമ്പത്തികസ്ഥിതി കാണിക്കുന്ന ഒരു പ്രസ്താവനയാണ് ബാലൻസ് ഷീറ്റ് സാധാരണയായി ഇത് വർഷാവസാനത്തോടെയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് Assets ലിസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് Liabilities ലിസ്റ്റ് ഉണ്ട് ഇവ തമ്മിൽ ബാലൻസ് ആവും അതിൽ തന്നെയാണ് ഈ പറയുന്ന Owners fund അഥവാ Equity shareholders money ഉള്ളത് ഇന്ന് നമ്മൾ അടുത്ത സാമ്പത്തിക പ്രസ്താവനയിൽ ആരംഭിക്കാനാണ് പോകുന്നത് അതായത് Profit loss ac ചിലപ്പോൾ ഇതിനെ Income statement എന്നും വിളിക്കും ഇന്ത്യയിലെ ബിസിനസ് സ്ഥാപനങ്ങൾ ഇതിനെ P L ac എന്നും നമ്മളെ പോലുള്ള മറ്റു ചില രാജ്യങ്ങളിൽ ഇതിനെ Income statement എന്നും വിളിക്കുന്നു ട്രസ്റ്റുകളും സൊസൈറ്റികളും പോലുള്ള ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനുകൾക്ക് ഇതിനെ Income expenditure ac എന്ന് വിളിക്കുന്നു എന്നാൽ അടിസ്ഥാന ആശയം ലാഭനഷ്ട അക്കൌണ്ടാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ PL ac പറ്റി ചർച്ച ചെയ്യും അതിലെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും Entity യുടെ പ്രവർത്തനഫലം വെളിപ്പെടുത്തുന്നത് PL ac ആണ് നിങ്ങൾ ഒരു കമ്പനി ആണെങ്കിൽ വ്യക്തമായും നിങ്ങൾ ലാഭമാണ് പ്രതീക്ഷിക്കുന്നത് PL ac ഒരു പ്രത്യേക വർഷത്തിലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക മാസത്തിലെ ലാഭം കാണിക്കും നിങ്ങളൊരു ലാഭേച്ഛയില്ലാത്ത സ്ഥാപനമാണെങ്കിൽ നിങ്ങൾ Income Expenditure ac തയ്യാറാക്കുകയും അത് Surplus ആയി കാണിക്കുകയും ചെയ്യും ഇപ്പോൾ ഓരോ സ്ഥാപനത്തിനും ലാഭം കണക്കാക്കാൻ അവരുടെ വരുമാനവും ചെലവും അറിയേണ്ടതുണ്ട് നമ്മളുടെ ആദ്യ സെഷനിൽ മണി സൈക്കിൾ അഥവാ ബിസിനസ് സൈക്കിൾ നോക്കി ബിസിനസ് സൈക്കിളിൽ നിന്ന് എന്തെല്ലാമാണ് വരുമാനം എന്തെല്ലാമാണ് ചെലവുകൾഎന്നിവ മനസ്സിലാക്കാൻ സാധിക്കും ഇവ തമ്മിലുള്ള വ്യത്യാസം ആയിരിക്കും മിച്ചം അല്ലെങ്കിൽ സ്ഥാപനത്തിൻറെ ലാഭം So the major components of P and L account are incomes and expenses PL ac പ്രധാന ഘടകങ്ങൾ വരുമാനവും ചെലവും ഇതൊരു ലളിതമായ ഫോർമാറ്റ് അല്ലെങ്കിൽ PL ac ഒരു ഹ്രസ്വരൂപം ആണ് അതിനാൽ ഇത് വിൽപ്പനയിൽ നിന്നാണ് ആരംഭിക്കുന്നത് സ്ഥാപനത്തിൻറെ വരുമാനത്തിൻറെ ഭൂരിഭാഗവും വിൽപനയാണ് വിൽക്കുന്ന സാധനങ്ങളുടെ ചെലവ് അതായത് Cost of goods sold കുറച്ചാൽ നിങ്ങൾക്ക് Gross profit ലഭിക്കുംഅതിൽ നിന്നും മറ്റു ചെലവുകൾ അല്ലെങ്കിൽ പ്രവർത്തനച്ചെലവ് നികുതി എന്നിവ കുറച്ചാൽ Net profit ലഭിക്കും ഇത് PL ac വളരെ ലളിതമായ ഫോർമാറ്റാണ് ഇനി കമ്പനി ആക്ട് ഷെഡ്യൂൾ III അനുസരിച്ച് ഉള്ള ഫോർമാറ്റ് നോക്കാം അതിൽ Sales പകരം Revenue from operations എന്നാണ് പറയുക എന്താണ് Revenue from operations മനസ്സിലാക്കാൻ ഞാൻ വിൽപ്പന എന്നപദം ഉപയോഗിച്ചിരുന്നു അത് റവന്യൂ പോലെയാണ് Revenue എന്നാൽ വിൽപ്പനയിലൂടെ ഉള്ള വരുമാനത്തെ മാത്രമല്ല സേവനത്തിലൂടെ ലഭിക്കുന്ന വരുമാനത്തെയും സൂചിപ്പിക്കുന്നു അതിനാൽ സേവനങ്ങളിൽ നിന്നും ലഭിക്കുന്ന വരുമാനവും വിൽപനയിൽ നിന്നും ലഭിക്കുന്ന വരുമാനവും കൂടിയാണ് Revenue from operation എന്ന് പറയുന്നത് Operation ദൈനംദിന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ സാധാരണഗതിയിൽ ഉള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ ആണ് Revenue from operations എന്നു പറയുന്നത് അടുത്തതായി Other income എന്താണ് Other income പേര് സൂചിപ്പിക്കുന്നതുപോലെ Revenue from operation നിന്ന് ല്ലാത്ത മറ്റു വരുമാനങ്ങൾ ആണ് സൂചിപ്പിക്കുന്നത് ഇത് പ്രത്യേകം കാണിക്കുന്നു ഇവ രണ്ടും കൂട്ടിച്ചേർത്ത തുകയാണ് III കാണിക്കുന്നത് Revenue I Other income II ഇപ്പോൾ PL ac നോക്കുന്നവർക്ക് Revenue from operation എത്രയാണെന്നും Other income എത്രയാണെന്നും അറിയാൻ സാധിക്കുന്നു അതിനാലാണ് ഇവയെ വേർതിരിച്ചു കാണിക്കുന്നത് I Revenue from operation II Other income III ഇവ രണ്ടും തമ്മിൽ കൂട്ടിയ തുക Other income ഒരുദാഹരണം പറയാമോ ആരെങ്കിലും ഒരു ഉദാഹരണം പറയാമോ നമ്മൾ കുറച്ച് പണം ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് കരുതുക quarter അവസാനത്തിലോ 6 മാസത്തിലെ അവസാനത്തിലോ ബാങ്ക് നമുക്ക് പലിശ നൽകുന്നു ആ പലിശ Other income തിൻറെ ഉദാഹരണമാണ് ഇത് നമ്മളുടെ പതിവ് ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം അല്ല ഇതൊരു സാധനങ്ങളുടെ വില്പന യോ സേവനങ്ങൾ നൽകുന്നത് അല്ല എന്നാൽ നമ്മൾ മിച്ചം വന്ന പണം നിക്ഷേപിച്ച് അതിൽ നിന്നും ലഭിച്ച വരുമാനമാണ് അതിനാൽ ഇത് Other income ആണ് അതുപോലെതന്നെ നമ്മളുടെ Fixed asset വിൽക്കുകയായിരുന്നു എങ്കിൽ അതിൽ നിന്നു ലഭിച്ച ലാഭത്തെ Other income ഉദാഹരണമാണ് നഷ്ടം സംഭവിച്ചാലും അത് Other income തന്നെയാണ് കാണിക്കുക അതിനാൽ സാധാരണഗതിയിൽ ബിസിനസ് ഐറ്റംസ് അല്ലാത്തവയെ കണ്ടെത്തുക അതിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ അവ Other income ആണ് ഈ രണ്ടു വരുമാനവും കൂടിയാണ് സ്ഥാപനത്തിൻറെ മൊത്തവരുമാനം ആകുന്നത് അടുത്തത് ഐറ്റം നമ്പർ IV Expenses അഥവാ ചെലവുകൾ ഒരു പ്രത്യേക വർഷത്തിലെ അല്ലെങ്കിൽ കാലയളവിലെ സ്ഥാപനത്തിൻറെ എല്ലാ ചെലവുകളും പട്ടിക പെടുത്തിയിരിക്കുന്നു കമ്പനി ആക്ട് ചില തലക്കെട്ടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ബാലൻസ് ഷീറ്റിൽ ചില തലക്കെട്ടുകൾ നമ്മൾ കണ്ടു അത് പോലെ PL ac ലും ചില തലക്കെട്ടുകൾ ഉണ്ട് നിങ്ങളുടെ എല്ലാ ചെലവുകളും ആ തലക്കെട്ടുകളിൽ ഉൾപ്പെടുത്തണം അതിനാൽ ആദ്യത്തെ ഇനം ഉപയോഗിച്ച വസ്തുക്കളുടെ വിലയാണ് ഇപ്പോൾ cost of material consumed എന്നാൽ എന്താണ് നിങ്ങൾ ഒരു നിർമ്മാണ സ്ഥാപനം ആണെന്ന് കരുതുക നിങ്ങൾ അസംസ്കൃതവസ്തുക്കൾ വാങ്ങും ചില സ്പെയർപാർട്സ് മറ്റു ചില ഉൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങും ഇപ്പോൾ ഈ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വന്ന ചെലവാണ് Cost of material consumed എന്നു പറയുന്നത് അത് സ്റ്റോക്കിൽ ആണെങ്കിൽ നിങ്ങൾ അത് ഇവിടെ കാണിക്കില്ല ഇക്കാലയളവിൽ യഥാർത്ഥത്തിൽ ഉപഭോഗം ചെയ്യുന്നത് മാത്രമേ Cost of materials consumed കാണിക്കൂ അടുത്തത് Stock in trade വാങ്ങൽ എന്താണ് stock in trade നിങ്ങൾ ഒരു ട്രേഡിങ് സ്ഥാപനമാണെങ്കിൽ നിങ്ങൾ finished goods വാങ്ങുകയും വിൽക്കുകയും ആണ് ചെയ്യുക അത് stock in trade ഉദാഹരണമാണ് ചിലപ്പോൾ നിർമാണ കമ്പനികൾ പോലും finished goods വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു അസംസ്കൃതവസ്തുക്കൾ വാങ്ങുകയാണെങ്കിൽ അത് നമ്പർ I കാണിക്കും നിർമ്മാണം പൂർത്തിയാക്കിയ വസ്തു വാങ്ങി വിൽക്കുകയാണെങ്കിൽ അതിനെ Stock in trade എന്ന് കാണിക്കും അടുത്തതായി change in inventory of finished goods work in progress stock in trade എന്നിങ്ങനെ വളരെ രസകരമായ ഇനങ്ങളാണ് ഓർക്കുക ഇവയെല്ലാം വ്യത്യസ്തമായ inventories അഥവാ സ്റ്റോക്കുകൾ ആണ് ഇപ്പോൾ സ്റ്റോക്കുകളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് കാണിക്കും മറ്റേതെങ്കിലും തരത്തിലുള്ള സാധനങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഒരുതരം കൂടി ഉണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒരു raw material inventory ഓർമ്മയുണ്ടോ പക്ഷേ അത് ഇവിടെ കാണിക്കുന്നില്ല കാരണം നിങ്ങൾ ഐറ്റം നമ്പർ I ഒന്ന് ഓർക്കൂ അതിൽ ഉപയോഗിച്ച raw materials മാത്രമേ പരിഗണിക്കൂ അതിൽ opening stock അതുപോലെ closing stock പരിഗണിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഉപഭോഗം എത്രയാണ് അതുമാത്രമേ PL ac എടുക്കുകയുള്ളൂ എന്നാൽ stock in trade finished goods എന്നിവയിൽ actual purchase പരിഗണിക്കൂ ഉപഭോഗത്തെ അല്ല വാങ്ങിയതിൽ ചിലപ്പോൾ വിറ്റു പോയില്ല എന്നു വരാം Stock in trade ൽ അത് സ്ഥാപനത്തിൻറെ closing stock ആയി അവശേഷിക്കുന്നു തുടക്കത്തിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരിക്കാം അത് ഓപ്പണിങ് സ്റ്റോക്ക് എന്നറിയപ്പെടുന്നു ഇപ്പോൾ ഓപ്പണിങ് സ്റ്റോക്ക് നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചാൽ change in stock ലഭിക്കും ആ വ്യത്യാസത്തെ ഇതിൽ കാണിക്കണം അതുപോലെതന്നെ finished goods work in progress എന്നിവയിലെ വ്യത്യാസത്തെ change in inventories എന്നുപറഞ്ഞ് കാണിക്കും ഇവ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മാറ്റങ്ങളുടെ അടയാളങ്ങളെ അതായത് എന്നിവ വളരെയധികം ശ്രദ്ധിക്കണം Cost of material consumed എന്ന ഇനത്തെ നോക്കുക എന്തെല്ലാം നിങ്ങൾ വാങ്ങിയോ അതെല്ലാം ഒരു ചെലവാണ് ഇനി change in inventory ഇപ്പോൾ Inventory ൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ Inventory ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ inventory കുറവാണ് കാരണം അത് നിങ്ങൾ ഉപയോഗിച്ചതിനാൽ ആണ് അതുകൊണ്ട് " കാണിക്കുക ഇപ്പോൾ inventory വർദ്ധനവുണ്ടായി എന്ന് കരുതുക അപ്പോൾ ' ' ആണ് കാണിക്കുക മനസ്സിലാകുന്നില്ലേ മുമ്പ് നിങ്ങൾക്ക് inventory കുറവായിരുന്നു എന്നാലിപ്പോൾ കൂടുകയാണ് ചെയ്തത് അപ്പോൾ നെഗറ്റീവ് ചിഹ്നത്തോടുകൂടി കാണിക്കും കാരണം ഇത് നിങ്ങളുടെ വരുമാനം പോലെയാണ് ഇത് നിങ്ങളുടെ ചെലവ് കുറയ്ക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ശ്രദ്ധയോടുകൂടി നോക്കുക ഈ inventory ഉണ്ടാകുന്ന ' ' മാറ്റങ്ങളെ ശ്രദ്ധിക്കൂ

അടുത്ത ഇനം ജീവനക്കാരുടെ ആനുകൂല്യവും ചെലവുകളാണ് അതിനാൽ ലളിതമായി ഇതിനെ ശമ്പള ചെലവ് എന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ ഇതിൽ ഓവർ ടൈം ബോണസ് വർക്ക് സ്ഥലത്തിലെ സന്ദർശനങ്ങൾ റിക്രൂട്ട്മെൻറ് ചെലവുകൾ ജീവനക്കാരന്ഏർപ്പെടുത്തിയ സൌകര്യങ്ങളുടെ ചെലവ് ഇവയെല്ലാം employee benefit expenses എന്ന തലക്കെട്ടിനു കീഴിൽ വരും അടുത്ത ഇനം വളരെ രസകരമാണ് ഇതിനെ ഫിനാൻസ് കോസ്റ്റ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഫിനാൻസ് കോസ്റ്റ് എന്നാൽ എന്താണ് ഫണ്ട് ലഭിക്കുന്നതിന് ചെലവ് വരികയാണെങ്കിൽ അതിനെ ഫിനാൻസ് കോസ്റ്റ് എന്നാണ് പറയുന്നത് ഇതിനൊരു ഉദാഹരണം എന്താണ് ഏറ്റവും മികച്ചതും ലളിതവുമായ ഉദാഹരണം പലിശ അടയ്ക്കൽ ആണ് നിങ്ങൾ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു എന്ന് കരുതുക ഓരോ quarter അവസാനത്തിൽ നിങ്ങൾ പലിശ നൽകേണ്ടിവരും ഇതൊരു finance cost ആണ് നിങ്ങളുടെ Debenture holders ന് പലിശ നൽകുന്നുണ്ടെങ്കിൽlease ന് പലിശ നൽകുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഫിനാൻസ് കോസ്റ്റ് ആണ് വാസ്തവത്തിൽ ഡിബഞ്ചറുകൾ issue ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവ് പോലും ഇതിൽ ഉൾപ്പെടുത്താം അതുപോലെ ചില one time charges ഇവയെല്ലാം ഫിനാൻസ് കോസ്റ്റിൽ പെടുന്നവയാണ് അടുത്തത് വളരെ വ്യത്യസ്തമായ ഒരു ഇനമാണ് അത് Depreciation amortization expense ആണ് ഇപ്പോൾ ഈ ഇനം എന്താണ് അർത്ഥമാക്കുന്നത് ഈ സെഷനു ശേഷം നമ്മൾ depreciation പറ്റി കൂടുതലായി ചർച്ച ചെയ്യുന്നതാണ് ഇപ്പോൾ ഡിപ്രീസിയേഷൻ എന്നാൽ fixed asset മൂല്യത്തിൽ ഉണ്ടാകുന്ന ഇടിവാണ് Fixed assets ഇവ ബാലൻസ് ഷീറ്റിൽ കാണാനാകും ഇതിൻറെ വിലയിൽ ഇടിവ് സംഭവിക്കും ഉദാഹരണമായി നിങ്ങൾക്ക് സ്വന്തമായി ഒരു കാർ ഉണ്ടെന്നു വിചാരിക്കുക നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാർ ഉപയോഗിക്കുമ്പോൾ വാടക നൽകേണ്ടതില്ല എന്നാൽ നിങ്ങളുടെ കാറിൻറെ മൂല്യം കുറയുന്നു മൂല്യത്തിൽ ഉണ്ടാകുന്ന ഈ ഇടിവിനെ ആണ് ഡിപ്രീസിയേഷൻ എന്നു പറയുന്നത് ഇത് ബാലൻസ് ഷീറ്റിൽ ഒരു ചെലവായി കണക്കാക്കപ്പെടുന്നു നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊരു Fixed asset എൻറെയുംമൂല്യം നഷ്ടപ്പെടും വർഷാവസാനം അതിൻറെ മൂല്യം തുടക്കത്തിലെ മൂല്യത്തേക്കാൾ കുറവായിരിക്കും മൂല്യത്തകർച്ച കണക്കാക്കുന്നതിന് വിവിധ രീതികൾ ഉണ്ട് നമ്മൾ പിന്നീട് അതിനെപറ്റി ചർച്ച ചെയ്യാം ഏതു രീതിയിൽ കണ്ടെത്തിയാലും Asset ൻറെ മൂല്യത്തിൽ ഇടിവ് സംഭവിച്ചാൽ Depreciation എന്ന് പറഞ്ഞ് Profit and loss ac കാണിക്കും ഇതൊരു പ്രത്യേക തരം ചെലവാണ് കാരണം ഇത് പണമല്ലാത്ത ചെലവാണ് അസംസ്കൃതവസ്തുക്കൾ മുതൽ finance cost വരെയും നമ്മൾ ചെലവുകൾ പണമായി അടയ്ക്കുകയായിരുന്നു നിങ്ങൾ ആരെയെങ്കിലും ജോലിക്ക് വെച്ചാൽ അവർക്ക് ശമ്പളം പണമായി നൽകണം നിങ്ങൾ ലോൺ എടുത്താൽ പലിശ പണമായി നൽകണം നിങ്ങൾ അസംസ്കൃതവസ്തുക്കൾ വാങ്ങിയാൽ അതിൻറെ തുക പണമായി നൽകണം ഇതിനെല്ലാം പണച്ചെലവ് ഉണ്ടാകും എന്നാൽ Depreciation ന് പണച്ചെലവ് ഇല്ല നമ്മൾ ഒരു കാർ അല്ലെങ്കിൽ ഒരു മെഷിനറി വാങ്ങി എന്ന് കരുതുക ആ സമയം നമ്മൾ അതിനു പണം നൽകും ആ കാർ നമ്മൾ അഞ്ചു വർഷമായി ഉപയോഗിക്കുകയാണ് ഓരോ വർഷവും നമുക്ക് പണം നൽകേണ്ടതില്ല എന്ന് വിചാരിക്കുക നിങ്ങൾ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതിനു പണം നൽകേണ്ടതുണ്ട് അല്ലാത്തപക്ഷം നൽകേണ്ടതില്ല നിങ്ങൾ ഒരു പണവും നൽകുന്നില്ല എന്നാൽ ആ കാറിൻറെ മൂല്യം ഓരോ വർഷവും കുറയുകയാണ് ഈ ഇടിവിനെ Profit loss അക്കൌണ്ടിൽ തുക കണ്ടെത്തി Depreciation എന്നും കാണിക്കും Amortization എന്നാൽ എന്താണ് രണ്ടുതരം Fixed assets ഉണ്ട് ഒന്ന് Tangible asset ഇതിൻറെ മൂല്യത്തിൽ ഇടിവ് സംഭവിച്ചാൽ Depreciation എന്നും മറ്റൊന്ന് Intangible asset ഇതിൻറെ മൂല്യത്തിൽ ഇടിവ് സംഭവിച്ചാൽ Amortization എന്നും പറയുന്നു ഉദാഹരണമായി നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ വാങ്ങി എന്നു വിചാരിക്കുക അതിൻറെ കാലാവധി മൂന്നു വർഷം ആണ് ഓരോ വർഷവും അതിൻറെ മൂല്യത്തിൽ 13 കുറവ് സംഭവിക്കും അതായത് മൂന്നു ലക്ഷം രൂപ വില മൂന്നു വർഷം കാലാവധി അപ്പോൾ ഓരോ വർഷവും ഒരു ലക്ഷം രൂപ വീതം കുറഞ്ഞ് മൂന്നാം വർഷമാകുമ്പോഴേക്കും ഇതിൻറെ മൂല്യം 0 ആകും ഇതിൽ കുറയുന്ന ഓരോ ലക്ഷം രൂപയെ Amortization എന്നാണ് പറയുക Intangible asset മൂല്യത്തിൽ ഇടിവ് സംഭവിക്കും അത് ഡിപ്രീസിയേഷൻ പോലെയാണ് കണക്കാക്കുന്നത് ഒരേയൊരു വ്യത്യാസം ഇത് Intangible asset ആണ് അതിന് Amortization എന്നൊരു പേരുണ്ട് അതിനാൽ ഏതൊരു കമ്പനിയുടെയും എല്ലാ ചെലവുകളും 6 തലക്കെട്ടുകൾക്ക് കീഴിലാണ് ഇതിൽ കൂടുതൽ ചെലവുകൾ ഉണ്ടാകാം എന്നാൽ നിങ്ങൾ അവ ഏറ്റവും ഉചിതമായ തലക്കെട്ടിനു കീഴിൽ കാണിക്കണം ഇവയെല്ലാംകൂടി കൂട്ടിയാൽ Total expense കണ്ടെത്താം ഇപ്പോൾ നമുക്ക് അടുത്ത തലക്കെട്ട് ലഭിച്ചു തലക്കെട്ട് V Profit before exceptional and extraordinary items and tax ഇത് III മൈനസ് IV ആണ് III എന്നാൽ മൊത്തം വരുമാനമാണ് മൈനസ് മൊത്തം ചെലവ് ചെയ്താൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നു വളരെ ലളിതമാണ് അതിനാൽ മൊത്തം വരുമാനത്തിൽനിന്ന് മൊത്തം ചെലവ് കുറച്ചാൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കും Exceptional extraordinary and taxes ഇതുവരെ കണക്കിൽ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇതിനെ അസാധാരണവും അസാധാരണവുമായ ഇനങ്ങൾക്കും നികുതിക്കു മുമ്പുള്ള ലാഭം എന്ന് വിളിക്കുന്നത് ഈ ഇനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അവയെ കണക്കിൽ എടുക്കാം എന്നാൽ ഇപ്പോൾ നമ്മൾ ഐറ്റം നമ്പർ V വിൽആണ് ഇത് പ്രാരംഭ ലാഭം ആയി കണക്കാക്കാം അതിൽനിന്നും നമ്മൾ രണ്ട് ഇനങ്ങളെ കുറയ്ക്കാൻ പോകുന്നു VI exceptional items VIII extraordinary items എന്നിവ എന്താണ് Exceptional item പേര് സൂചിപ്പിക്കുന്നതുപോലെ ചില ഇനങ്ങൾ ഓരോവർഷവും ആവർത്തിക്കാൻ സാധ്യത ഇല്ലെങ്കിൽ അത് സാധാരണ ബിസിനസ് ഗതിയിൽ ഉള്ളത് അല്ലെങ്കിൽപ്രത്യേകം കാണിക്കേണ്ടതുണ്ട് അതിനെ Exceptional item എന്നു പറയും Exceptional item മറ്റൊരുദാഹരണം പറയാമോ ഇപ്പോൾ നിങ്ങളുടെ ഫാക്ടറിയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് കരുതാം തന്മൂലം നിങ്ങളുടെ സ്റ്റോക്കുകൾ കേടായി യന്ത്രങ്ങൾ കേടായി വെള്ളപ്പൊക്കത്തിനു ശേഷം നിങ്ങളുടെ യന്ത്രങ്ങൾ പുനർസ്ഥാപിക്കുന്നതിനും ധാരാളം അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടിവരും അതിനാൽ stock ൻറെ നഷ്ടം machinery കേടുപാടുകൾ നന്നാക്കൽ ഇവയെല്ലാം ഒരുമിച്ച് എടുത്താണ് exceptionalextraordinary item തുക കണ്ടെത്തുന്നത് സാധാരണഗതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഇതിൽ ഉൾപ്പെടുത്തില്ല ഒരു വലിയ വെള്ളപ്പൊക്കം കാരണം ഗണ്യമായ നഷ്ടം ഉണ്ടായെങ്കിൽ അത് അസാധാരണമായ ഒരു ഇനമായി പ്രത്യേകം കാണിക്കാം സാധാരണഗതിയിൽ അല്ലാത്ത തീപിടുത്തം മൂലംനാശനഷ്ടങ്ങൾ സംഭവിച്ചാൽ ഇതേ ഗണത്തിൽ പെടുത്താം ഒരു പ്രത്യേക Item ത്തെ അസാധാരണമായി തരംതിരിക്കൽ ആണോ അതോ സാധാരണ ഇനമായി കാണിക്കണോ എന്ന് തീരുമാനിക്കുന്നത് മാനേജ്മെൻറ് ആണ് അവർ അത് ഒരു സാധാരണ ഇനം ആയി കണക്കാക്കും എങ്കിൽ അത് സാധാരണ ചെലവുകളിൽ കാണിക്കാം ഉദാഹരണത്തിന് നിങ്ങളുടെ അസംസ്കൃതവസ്തുക്കൾ വെള്ളപ്പൊക്കത്തിൽ നശിക്കുന്നു ഇതൊരു ചെറിയ തുകയാണെങ്കിൽ cost of rawmaterial consumed കാണിക്കും അല്ലാതെ പ്രത്യേകം കാണിക്കേണ്ടതില്ല എന്നാൽ ഇതൊരു ഗണ്യമായ തുകയാണെങ്കിൽ നമ്മൾ ഇത് അസാധാരണ ഇനമായി കാണിക്കും കാരണം ഇത് എല്ലാ വർഷവും സംഭവിക്കില്ല അതുപോലെ മറ്റൊന്നാണ് Extraordinary items അസാധാരണമായതിനേക്കാൾ അസാധാരണം ആണെങ്കിൽ അത് extraordinary ആണ് ഉദാഹരണത്തിന് വെള്ളപ്പൊക്കംമൂലം നിങ്ങളുടെ ഫാക്ടറി പൂർണമായും നശിച്ചു അത് extraordinary item ആണ് ഇത് അപൂർവ്വങ്ങളിൽ അപൂർവ്വമാണെന്ന് ഓർമ്മിക്കുക സാധാരണഗതിയിൽ വെള്ളപ്പൊക്കം സംഭവിക്കുകയാണെങ്കിൽ അത് exceptional എന്നു പറയും 1020 വർഷം കൂടുമ്പോൾ സ്ഥിരമായി സംഭവിക്കുന്ന വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടം സംഭവിക്കുകയാണെങ്കിൽ Exceptional item ആണ് എന്നാൽ 100 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന ഭീകരമായ വെള്ളപ്പൊക്കത്തിൽ നിങ്ങളുടെ സ്ഥാപനം തന്നെ ഇല്ലാതാക്കുകയാണ് എങ്കിൽ Extraordinary item ആണ് മാനേജ്മെൻറ് ആണ് ഇത്തരം സംഭവങ്ങളെ Exceptional Extraordinary ആയി തരംതിരിക്കുന്നത് എന്തിനാണ് ഇതിനെ പ്രത്യേകം കാണിക്കുന്നത് കാരണം Financial statements അതിൽ Profit loss ac വായിക്കുന്നവർക്ക് ഒരു പ്രത്യേക ഇനം എല്ലാവർഷവും സംഭവിക്കുമോ ഇല്ലയോ എന്നറിയണം സാധാരണഗതിയിൽ ചെലവുകൾ ആയി തരം തിരിച്ചിരിക്കുന്ന ഇനങ്ങൾ സാധാരണ ബിസിനസ് ഗതിയിൽ ഉള്ള ചെലവുകൾ ആയി നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ അവ പതിവായി ആവർത്തിച്ച് സംഭവിക്കും PL എന്നത് സാധാരണ വരുമാനവും ചെലവും കാണിക്കുന്ന ഒരു പ്രസ്താവനയാണ് അതിനാൽ അവ ആവർത്തിക്കാൻ സാധ്യതയുള്ളവയാണ് എന്ന് അനുമാനിക്കാം എന്നിരുന്നാലും സ്ഥിരമായി ആവർത്തിക്കാത്ത എന്നാൽ വലിയ നഷ്ടം സൃഷ്ടിക്കുന്നവ exceptional extraordinary ഇനത്തിൽ പെടുന്നവയാണ് ഇവ ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്താൻ കഴിയില്ല എന്ന് ഓർക്കുക ഇവ പുതിയ Assets ഉണ്ടാക്കുന്നില്ല പക്ഷേ നിലവിലുള്ള Assets നശിപ്പിക്കുകയാണ് അതിനാലാണ് ഇവയെ ബാലൻസ് ഷീറ്റിൽ നിന്നും നീക്കം ചെയ്തതും PL ൽ പ്രത്യേകം കാണിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ആരെങ്കിലും PL വായിക്കുകയാണെങ്കിൽ അവർ exceptional അഥവാ extraordinary ചെലവുകളെ നോക്കും ഇതൊരു സാധാരണ ചെലവ് അല്ല എന്ന് അവർക്ക് മനസ്സിലാകും അതിനാൽ അടുത്ത വർഷം ഇതിൽ കൂടുതൽ ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും കാരണം ഇത്തരം ചെലവുകൾ തുടർച്ചയായി ഉണ്ടാകുന്നതല്ല Exceptional losses മാത്രമല്ല Exceptional profits ഉണ്ടാകാനും സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഒരു Exceptional item of profit പറ്റി ഉദാഹരണം പറയാമോ നമ്മൾ കുറച്ച് ഭൂമി വാങ്ങി എന്ന് കരുതുക 1950 ൽ വാങ്ങുമ്പോൾ ഇതിന് 5 ലക്ഷം രൂപയായിരുന്നു ഇന്ന് അതായത് 2019 അല്ലെങ്കിൽ 2020 70 വർഷങ്ങൾക്കുശേഷം ഇതിൻറെ വില 5 കോടിയാണ് 5 ലക്ഷം രൂപയുടെ ഈ സ്ഥലം നമ്മൾ 5 കോടിക്ക് വിറ്റാൽ 4 കോടി 95 ലക്ഷം രൂപ ലാഭം കിട്ടും എല്ലാ ലാഭവും നമ്മൾ PL ആണ് കാണിക്കാറുള്ളത് അതുകൊണ്ട് ഈ ലാഭവും നമുക്ക് PL കാണിക്കാം എന്നാൽ Revenue ൽ കാണിക്കാൻ സാധിക്കുമോ സാധിക്കില്ല കാരണം ഭൂമി നിൽക്കുക എന്നത് നമ്മളുടെ ബിസിനസ് അല്ല Other income ആയി കാണിക്കാനും കഴിയില്ല ഇത് Other income ആണെങ്കിലും എല്ലാ വർഷവും ആവർത്തിക്കുന്നില്ല കാരണം ഈ വർഷം നമ്മൾ ഭൂമി വിൽക്കുകയാണെങ്കിൽ അടുത്തവർഷം വിൽപനയ്ക്കു ഭൂമി ലഭ്യമല്ല ഇത് നമ്മുടെ സാധാരണ വസ്തുക്കളുടെ വിൽപന പോലെയല്ല അതുകൊണ്ട് ഈ 4 കോടി 95 ലക്ഷം Extraordinary item ഉദാഹരണമാണ് നിങ്ങൾ ഓർക്കുന്നു എങ്കിൽ Extraordinary item എന്നാണ് അല്ലാതെ Extraordinary expenses എന്നല്ല നമ്മൾ ചർച്ച ചെയ്തത് അതിനാൽ ഇവിടെയുള്ള ചിഹ്നത്തെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് എല്ലായ്പ്പോഴും ഒരു നെഗറ്റീവ് ചിഹ്നം അല്ല അത് നെഗറ്റീവ് ആകാം ചിലപ്പോൾ ഇത് പോസിറ്റീവ് ആകാം അതിനുപുറമേ മാനേജ്മെൻറ് ഒരു note കാണിക്കണം അതിൽ എന്തുകൊണ്ടാണ് ഈ item Exceptional അഥവാ Extraordinary ആയി കാണിച്ചു എന്ന് വിശദീകരിക്കണം അതിനാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കുക അതിൽ notes എന്ന വിഭാഗത്തിൽ വല്ല Exceptional or extraordinary items പറ്റി പറയുന്നുണ്ടോ എന്ന് നോക്കൂ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നമ്മൾ V Profit before exceptional extraordinary items എന്ന തലക്കെട്ടിൽ ആയിരുന്നു അതിൽനിന്നും നമ്മൾ exceptional extraordinary items കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് IX profit before tax ലഭിക്കും അതിൽനിന്നും നമ്മൾ X Tax expense അഥവാ നികുതി ചെലവ് current year taxes deferred taxes എന്നിവ കുറച്ചാൽ ഈ വർഷത്തിലെ Profit or loss ലഭിക്കും ഇപ്പോൾ നിലവിലുള്ള നികുതി എന്താണ് മാറ്റിവച്ച് നികുതി എന്താണ് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തതായി ഞാൻ കരുതുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കാം അതിനാൽ നമുക്ക് IX ഭാഗത്ത് നേടിയ ലാഭത്തിൽ നിന്നു സർക്കാരിലേക്ക് നികുതി നൽകേണ്ടിവരും അത് ഈ വർഷത്തിലെ നികുതി ആണെങ്കിൽ Current taxes എന്നും 234 വർഷങ്ങൾക്കുശേഷം നികുതി നൽകിയാൽ മതിയെന്ന് സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ അതിനെ Deferred tax എന്നു പറയും എന്നിരുന്നാലും അവ ഈ വർഷത്തെ PL ൽ കാണിക്കും കാരണം അവ ഈ വർഷത്തെ ലാഭത്തിൽ നിന്നാണ് അടയ്ക്കേണ്ടി വരുന്നത് പക്ഷേ ആ പണം പിന്നീട് നൽകിയാൽ മതി അതിനാൽ നികുതി രണ്ടുതരമുണ്ട് Current taxes Deferred taxes ഇപ്പോൾ നിങ്ങൾക്ക് Profit from continuing operations ലഭിക്കും തുടർന്ന് പ്രത്യേകമായി Profit from discontinuing operation കാണിക്കണം അതിനർത്ഥം ചില ബിസിനസ് നിർത്തിയാൽ അതിൽനിന്നുള്ള ലാഭമോ നഷ്ടമോ പ്രത്യേകമായി കാണിക്കണം അതിൽനിന്നുള്ള നികുതിയും പ്രത്യേകം കാണിക്കണം അടച്ചിട്ടിരിക്കുന്ന ചില ഫാക്ടറികളിൽ നിന്ന് ചിലപ്പോ ലാഭമോ നഷ്ടമോ ലഭിക്കാം അതിനാൽ പ്രവർത്തനം നിർത്തിവെച്ച സ്ഥാപനത്തിലെ Profit before tax profit after tax എന്നിവ XIV എന്ന ഐറ്റം നമ്പറിൽ കാണിച്ചിരിക്കുന്നു അവസാനമായി ഐറ്റം നമ്പർ XV ഈ വർഷത്തിലെ ലാഭമോ നഷ്ടമോ ആയി ലഭിച്ച തുക അതായത് XI Profit or loss from continuing operation അതിൻറെ കൂടെ XIV profitloss from discontinuing operation കൂട്ടിയാൽ കിട്ടുന്ന അന്തിമ തുകയാണിത് ഇത് ബിസിനസിനെ അന്തിമ സ്കോർകാർഡ് പോലെയാണ് ഇത് companies act ൻറെ ഷെഡ്യൂൾ III അനുസരിച്ചുള്ള ഫോർമാറ്റ് ആയിരുന്നു അതിനാൽ നമ്മൾ ഇവിടെ നിർത്തുന്നു അടുത്ത സെഷനിൽ നമ്മൾ വീണ്ടും ലാഭനഷ്ട അക്കൌണ്ട് തുടരും നമസ്തേ